നാം നോഡൽ അനാലിസിസ് നോക്കി അത് സർക്യൂട് അനാലിസിസ് ചെയ്യുവാനുള്ള പൊതുവായ രീതി ആണ് അത് ഏതു സൈസിൽ ഉള്ള സർക്യൂട് ആണെങ്കിലും നമുക്ക് ചെയ്യാനാകുന്നതാണ് ഇത് ഒരു സർക്യൂട്ടിന്റെ ഇക്വേഷനുകൾ എഴുതാനുള്ള ചിട്ടയായ രീതി ആണ് അത് മാട്രിക്സ് ഇൻവെർസ് ഉപയോഗിച്ചാണ് സോൾവ് ചെയ്തത് ഇനി നോഡിൽ KCL ഉപയോഗിക്കുന്നതിനു പകരം ലൂപിൽ KVL ഉപയോഗിച്ചും നമുക്ക് ആരംഭിക്കാം നോഡിലെ പോലെ ലൂപ്പ് എന്നത് എല്ലായ്പോഴും ഒരേ രീതിയിൽ ആകണമെന്നില്ല എന്തെന്നാൽ ഒരേ സർക്യൂട്ടിന് തന്നെ പല സെറ്റ് ലൂപ്പുകൾ ഉണ്ടാകാം അവ സ്വതന്ത്രമാണ് എന്നാൽ മറ്റൊന്നിൽ നിന്നും വ്യത്യാസവുമാണ് അപ്പോൾ നാം നോക്കുന്നത് ഒരു സർക്യൂട്ടിന്റെ ഒരു പ്രത്യേക വക ഭേദമാണ് ഇത് എല്ലാ സർക്യൂട്ടിനും ബാധകമാകണമെന്നില്ല ഇതാണ് മെഷ് അനാലിസിസ് ഇത് ലൂപ്പ് അനാലിസിസ് ന്റെ ഒരു വകഭേദം ആണ് അത് പ്ലാനാർ സർക്യൂട്ടിൽ ആണ് ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ഇവിടെ ഈ സർക്യൂട്ടിന്റെ ഗ്രാഫ് എടുത്ത് പല ലൂപ്പുകൾ ഏതൊക്കെ ആണ് എന്ന് പറയാൻ പോകുന്നു അപ്പോൾ മനസ്സിലാകും ഒരാൾക്ക് പല ലൂപ്പുകൾ എടുത്തു അതിലെല്ലാം KVL പ്രയോഗിക്കാനാകും നമുക്ക് പറയാം ഈ ഗ്രാഫ് എന്നത് ഈ 4 പോയിന്റുകൾ എന്നത് സർക്യൂട്ടിലെ നോഡുകൾ ആണ് ഈ ബ്രാഞ്ചിൽ ഉണ്ടാകുക ഒരു രണ്ടു ടെർമിനൽ ഡിവൈസ് ആണ് ഞാൻ പറയുന്നു ഇവിടെ ഞാൻ ഈ ലൂപ്പ് പിന്നെ ഈ ലൂപ്പ് അതോടൊപ്പം ആ ലൂപും എടുക്കുകയാണ് എന്നാൽ മറ്റൊരു രീതിയിൽ എനിക്ക് ഈ ലൂപും ഈ ലൂപ്പും പിന്നെ ഈ മുഴുവൻ ലൂപ്പും എടുക്കാനാകുന്നതാണ് നമുക്ക് വേണ്ടത് മൂന്നു ലൂപ്പ് ഇക്വേഷനുകൾ എഴുതുക എന്നതാണ് ഇതാണ് ചെയ്യാൻ സാധ്യമായ രണ്ടു രീതികൾ അതുപോലെ ഇനിയും രീതികൾ ഉണ്ട് ഇവിടെ അതിനാൽ അവ്യക്തതകൾ ഉണ്ട് അപ്പോൾ ഈ മെഷ് അനാലിസിസ് എന്നത് ഈ അവ്യക്തത ഇല്ലാതാക്കുന്നു ഇത് നാം സൌകര്യത്തിനു വേണ്ടി ചെയ്യുന്നതാണ് പഴയതു പോലെ ലൂപ്പ് അനാലിസിസ് ഇവിടെ ചെയ്യാനാകും ഇവിടെ പല കാരണങ്ങൾ ഉണ്ട് നോഡൽ അനാലിസിസിനു ആണ് നാം കൂടുതൽ പ്രാധാന്യം നൽകുക പിന്നെ ഈ ലൂപ്പ് അനാലിസിസിൻറെ അവ്യക്തത കാരണം നാം മെഷ് അനാലിസിസ് ആയിരിക്കും പ്രാധാന്യം നൽകുക ഇനി ഈ പ്ലാനാർ സർക്യൂട് എന്നാൽ എന്താണ് അത് ഒരു പ്രതലത്തിൽ വരച്ചു തീർക്കാനാകുന്ന സർക്യൂട് ആണ് അതായതു ഒരു പേപ്പർ കഷണത്തിൽ ബ്രാഞ്ചുകൾ മറികടക്കാതെ വരച്ചു തീർക്കാനാകാണ൦ ഈ സർക്യൂട് നോക്കുക ഈ നോഡിൽ ഒരു കാരണവശാലും രണ്ടു ബ്രാഞ്ചുകൾ പരസ്പരം മറികടന്നു പോകുന്നില്ല അതിനാൽ ഉറപ്പായിട്ടും പറയാം ഇതൊരുപ്ലാനാർ സർക്യൂട് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ് എങ്ങനെ ഈ പ്ലാനാർ സർക്യൂട് നമ്മൾ തിരിച്ചറിയും എന്തെന്നാൽ ഇവിടെ രണ്ടു ബ്രാഞ്ചുകൾ തമ്മിൽ ക്രോസ്സ് ചെയ്യുന്നത് പോലെ തോന്നും പക്ഷെ എനിക്ക് ഇവിടെ ഇങ്ങനെ വരക്കണമെന്നില്ല ഇത് ഈ രീതിക്കും വരയ്ക്കാനാകും അപ്പോൾ ഇതും പ്ലാനാർ സർക്യൂട് ആകും എന്നാൽ ഈ സർക്യൂട് ഇത് വരെ പ്ലാനാർ സർക്യൂട് ആണ് എന്നാൽ നമുക്ക് നോഡിൽ നിന്നും ഈ നോഡിലേക്കു ഒരു ബ്രാഞ്ച് കണക്ട് ചെയ്യാം അപ്പോൾ മനസ്സിലാകും ഇതിൽ മറ്റൊരു ബ്രാഞ്ചിനെ ക്രോസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇത് തീർച്ചയായും പ്ലാനാർ സർക്യൂട് അല്ല അപ്പോൾ ഈ പ്ലാനാർ സർക്യൂട്ടിൽ മാത്രമാണ് നാം മെഷ് അനാലിസിസ് പ്രയോഗിക്കുക നമുക്ക് ഈ പ്ലാനാർ സർക്യൂട്ടിനെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാം ഇത് ഒരു രാജ്യത്തിൻറെ ഭൂപടം എന്ന രീതിയിൽ വേണ്ടമെങ്കിൽ പറയാം അത് ഒരു പ്രതലത്തിൽ നമുക്ക് വരക്കാം പിന്നെ അതിർത്തികൾ പരസ്പരം മറികടക്കുന്നില്ല നമുക്ക് ഈ സർക്യൂട്ടിനെ രാജ്യമായി കരുതാം പിന്നെ ഈ മൂന്നെണ്ണം ആ രാജ്യത്തിൻറെ സംസ്ഥാനം എന്നും കരുതാം അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് എന്നത് രണ്ടു പ്രദേശങ്ങളുടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അതിർത്തി ആണ് എന്ന് വേണ്ടമെങ്കിൽ പറയാം ഇവിടെ ഒരു ബ്രാഞ്ച് എന്നത് കൂടിപ്പോയാൽ രണ്ടു പ്രദേശങ്ങളുമായി മാത്രമാണ് അതിർത്തി പങ്കു വെക്കുക ഈ മെഷ് എന്നത് ഒരു പ്ലാനാർ സർക്യൂട്ടിലെ ഒരു ലൂപ്പ് ആണ് എന്ന് പറയാം എന്നാൽ അതിൽ മറ്റു ലൂപ്പുകൾ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നമുക്ക് പറയാനാകുന്നത് ഈ മെഷ് എന്നത് ഒരു സർക്യൂട്ടിനെ സംബന്ധിച്ചു സ്ഥിരമാണ് ഇത് ഒരു മെഷ് ആണ് ഇതും ഒരു മെഷ് ആണ് എന്നാൽ ഇത് മെഷ് അല്ല എന്തെന്നാൽ ഈ ലൂപ്പിൽ മറ്റൊരു ലൂപ്പ് ഉണ്ട് ഒരു ലൂപ്പ് എന്നത് ബ്രാഞ്ചുകളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു എന്ന് പറയാം എന്നാൽ അതിന്റെ ഉള്ളിൽ വേറൊരു ബ്രാഞ്ച് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ പ്ലാനാർ സർക്യൂട്ടിനെ നമുക്ക് ഒരു രാജ്യമായി കണക്കാക്കാം മെഷ് എന്നത് അതിലെ ഓരോ സംസ്ഥാനങ്ങൾ ആണ് ഈ ഡെഫിനിഷനിൽ നിന്നും മനസിലാക്കാം ഒരു ബ്രാഞ്ച് എന്നത് കൂടിപ്പോയാൽ രണ്ടു മേഷുകളിൽ മാത്രമാണ് പൊതുവായി ഉള്ളത് ഈ സർക്യൂട് നാം വീണ്ടും വരയ്ക്കുമ്പോൾ മെഷ് ഏതൊക്കെ ആണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതിൽ അവ്യക്തത ഒന്നും ഉണ്ടാകില്ല ഈ മെഷ് തിരിച്ചറിയുക എന്നതിന് ആകെ ഒരു രീതി മാത്രമേ ഉള്ളൂ അത് ഒരു നേട്ടമാണ് ഇതിന്റെ ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഒരു ലാളിത്യം ആണ് അതിനാൽ ആണ് അത് നാം പഠിക്കാൻ പോകുന്നത് ഈ ലൂപ്പ് അനാലിസിസ് എന്നത് പൊതുവായി ചെയ്യാവുന്ന കാര്യമാണ് എന്നാൽ അത് ഇവിടെ ചെയ്യുന്നതല്ല ഇവിടെ 3 മെഷ് ആണ് ഉള്ളത് പുറത്തുള്ള ഈ ബ്രാഞ്ചുകൾ എന്നത് ഒരു മെഷിൽ മാത്രമായി ഉള്ളവയാണ് എന്നാൽ ഈ ബ്രാഞ്ച് എന്നത് ഈ രണ്ടു മെഷ് നു പൊതുവാണ് അതുപോലെ ഇതും അതിനാൽ ഒരു ബ്രാഞ്ച് ഒന്നുകിൽ ഒരു മെഷ് അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് പൊതുവാണ് എന്നാൽ ഒരു സർക്യൂട് വരച്ചു കഴിഞ്ഞാൽ പിന്നെ മെഷ് വരയ്ക്കുക എന്നത് അവ്യക്തമായ ഒരു കാര്യമാണ് എന്തെന്നാൽ ഈ മെഷ് വരയ്ക്കുമ്പോൾ മറ്റു ലൂപ്പ് ഒന്നും തന്നെ അതിൽ ഇല്ല എന്നത് നിങ്ങൾ ഉറപ്പിക്കേണ്ട കാര്യമാണ് എന്നാൽ ഇതേ സർക്യൂട് തന്നെ പല വിധത്തിൽ ചെയ്യാനാകും അപ്പോഴും ചില അവ്യക്തത ഉണ്ടാകും എന്നാൽ മെഷിൻറെ കാര്യത്തിൽ അതില്ല ഞാൻ അർത്ഥമാക്കുന്നത് ഞാൻ ഈ സർക്യൂട് എന്നത് രണ്ടു രീതിയിൽ വീണ്ടും വരയ്ക്കുക ആണ് അതിൽ തന്നെ ബ്രാഞ്ചുകൾ മനസിലാക്കുന്നു ഞാൻ അതിനു 1 2 3 4 5 പിന്നെ 6 എന്നും പേര് കൊടുക്കുന്നു ഈ സർക്യൂട് അതുപോലെ തന്നെ ഞാൻ വീണ്ടും വരക്കുകയാണ് ഇവിടെ അധികമായി 5 6 എന്നിവ ഉണ്ട് മെഷ് എന്നത് ഈ പ്രദേശങ്ങൾ ആണ് ഇവിടെ 3 മേഷുകൾ ഉണ്ട് ആദ്യത്തേതിൽ 1 5 പിന്നെ 4 രണ്ടാമത്തേതിൽ 2 5 പിന്നെ 3 പിന്നെ ഇത് 4 3 6 ഇങ്ങനെയാണ് മെഷ് മനസ്സിലാക്കുന്നത് പിന്നെ ഈ മെഷ് എന്നത് 1 2 6 അടുത്തത് 4 6 3 പിന്നെ 2 5 3 പല അളവുകൾ ഇതിൽ ഉപയോഗിക്കാം ഒന്നുകിൽ ഇവ അല്ലെങ്കിൽ ഈ അളവുകൾ ഈ രണ്ടു കേസിലും ലഭിക്കുന്ന ഉത്തരങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കും പക്ഷെ ഇടയിൽ ഉപയോഗിക്കുന്ന വേരിയബിൾ വ്യത്യസ്തമായിരിക്കും നിങ്ങൾ ഇവിടെ അനുമാനിക്കേണ്ട ഒരു കാര്യം എന്നത് നിങ്ങൾക്കു തന്നിരിക്കുന്ന സർക്യൂട് എന്നത് പ്ലാനാർ സർക്യൂട് ആണ് എന്നതാണ് മറ്റൊന്നും മാറ്റാതെ തന്നെ നിങ്ങൾക്കിതിൽ മെഷ് തിരിച്ചറിയാനാകും ഇവിടെ നാം ഉപയോഗിക്കുന്ന വേരിയബിൾ എന്നത് മെഷ് കറന്റ് ആണ് അതിൽ നിന്നും നമുക്ക് വേണ്ട മറ്റു കറന്റുകളും വോൾടേജുകളും ലഭിക്കുന്നതാണ് ആദ്യം നമുക്ക് എല്ലാ ബ്രാഞ്ചുകളിലും കറന്റ് എത്ര എന്ന് ലഭിക്കും പിന്നീട് ബന്ധം ഉപയോഗിച്ച് വോൾടേജ് കിട്ടും